നാം കോൺസ്റ്റൻറ് VGS ബയാസിംഗ് ഉള്ള പി മോസ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ കണ്ടിരുന്നു ഇനി തന്നിരിക്കുന്ന VGS നു പകരം ഒരു തന്നിരിക്കുന്ന കറൻറിൽ എൻ മോസ് ട്രാൻസിസ്റ്ററിനു സമാനമായി പി മോസ് ട്രാൻസിസ്റ്റർ ബയാസ് ചെയ്യാനുള്ള മറ്റു മാർഗങ്ങൾ നോക്കാം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ എൻ മോസ് 4 തരത്തിലുണ്ട് ഡ്രയിനിൽ നമുക്ക് സെൻസ് ചെയ്യാൻ സാധിച്ചിരുന്നു സെൻസ് എന്നുപറയുമ്പോൾ ഡ്രയിൻ ടെർമിനലിൽ ഉള്ള ഡിസയർഡ് കറൻറ് Io ആക്ച്വൽ കറൻറ് ID എന്നിവയുടെ വ്യത്യാസമാണ് അർത്ഥമാക്കുന്നത് ഗേറ്റിലേക്ക് ഫീഡ്ബാക്ക് നൽകിയിരിക്കുന്നു അത് ഈ ടോപ്പോളജി നൽകുന്നു ഇത് സെൻസ് ചെയ്യാൻ കറൻറ് സോഴ്സ് Io ഇവിടെ ബന്ധിപ്പിക്കണം അങ്ങനെ ഈ വ്യത്യാസമായ പാരസൈറ്റിക് കപ്പാസിറ്ററിലേക്ക് ഒഴുകി ഡ്രയിൻ വോൾട്ടേജും ഗേറ്റിലേക്കുള്ള ഫീഡ്ബാക്കും മാറ്റുന്നു ഫീഡ്ബാക്ക് ഒരു പോസിറ്റീവ് ഇൻക്രിമെൻറൽ ഗെയിൻ വഴി പൂർത്തിയാക്കണം അതായത് ഡ്രയിൻ വോൾട്ടേജ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഗേറ്റ് വോൾട്ടേജും വർധിക്കണം ഇതിൻറെ ഏറ്റവും ലളിതമായ നിർവഹണം ഇതുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് ആണ് ഇതുപയോഗിച്ച് ആംപ്ലിഫയർസ് എങ്ങനെ റിയലൈസ് ചെയ്യണമെന്ന് നാം കണ്ടിരുന്നു ഇനി ഇതിൻറെ പി മോസ് പകർപ്പിൽ നോക്കിയാൽ എല്ലാം വിപരീതമായിരിക്കും ഇതിനെ VDD എന്ന് വിളിക്കാം ഉറപ്പിച്ചിരിക്കുന്ന വോൾട്ടേജിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻറെ സോഴ്സ് ആണ് ഇത് നേരത്തെ പറഞ്ഞത് പോലെ നാം പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജസിൽ പ്രവർത്തിക്കുന്നതിനാൽ ഇതിനെ VDD എന്ന് വിളിക്കുന്നു താഴെയുള്ള റയിലിനെ ഗ്രൌണ്ട് എന്ന് വിളിക്കുന്നു ഇത് സർക്യൂട്ടിൻറെ കോമൺ റഫറൻസ് നോഡ് ആയിരിക്കും കൂടാതെ ഡ്രയിൻ നോഡിൽ വ്യത്യാസം സെൻസ് ചെയ്യണം ഇതാണ് ID ഇതാണ് Io അതിനാൽ വ്യത്യാസമായ പാരസൈറ്റിക് കപ്പാസിറ്ററിലേക്ക് ഒഴുകുന്നു ഡ്രയിൻ കറൻറ് ആവശ്യമുള്ള കറൻറിനേക്കാൾ ചെറുതാണെങ്കിൽ ഈ കറൻറ് വലിച്ചെടുക്കും വോൾട്ടേജ് കുറയാൻ തുടങ്ങും കൂടാതെ ഡ്രയിൻ കറൻറ് ആവശ്യമുള്ള കറൻറിനേക്കാൾ ചെറുതാണെങ്കിൽ ID എന്നത് Io എന്നതിനേക്കാൾ ചെറുതാണെങ്കിൽ ഗേറ്റ് വോൾട്ടേജ് VG കുറയ്ക്കണം കാരണം സോഴ്സ് ഗേറ്റ് വോൾട്ടേജ് VSG വർദ്ധിപ്പിക്കണം അതിനാൽ യഥാർത്ഥത്തിൽ VG കുറയ്ക്കണം ഇത് എങ്ങനെ ചെയ്യാൻ സാധിക്കും ID എന്നത് Io എന്നതിനേക്കാൾ ചെറുതാണെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനാൽ ഡ്രയിനിലെ വ്യത്യാസം നമുക്ക് ഗേറ്റിൽ ആവശ്യമുള്ള വ്യത്യാസത്തിൻറെ അതേ ദിശയിലാണ് എൻ മോസിൻറെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് വീണ്ടും മുൻപത്തെ പോലെ ഫീഡ്ബാക്ക് ഒരു പോസിറ്റീവ് ഇൻക്രിമെൻറൽ ഗെയിൻ ഉപയോഗിച്ച് പൂർത്തിയാക്കുക ഇതിനർത്ഥം V D വർദ്ധിക്കുന്നുണ്ടെങ്കിൽ VG വർദ്ധിക്കുന്നു എന്നാണ് ഇതാണ് പോസിറ്റീവ് ഇൻക്രിമെൻറൽ ഗെയിനിൻറെ കർത്തവ്യം ഇത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം ഡ്രയിൻ ഗേറ്റിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുക എന്നതാണ് ഇവിടെ സ്റ്റഡി സ്റ്റേറ്റിൽ ID Io ആണെന്ന് നിങ്ങൾക്കറിയാം സ്റ്റഡി സ്റ്റേറ്റ് എന്നാൽ വോൾട്ടേജിൽ ഇനി മാറ്റമുണ്ടാകുന്നില്ല എന്നാണ് അർത്ഥം ഇത് VDD ആണെങ്കിൽ VSG ക്രമീകരിച്ച് ഡ്രയിൻ കറൻറ് ID Io എന്നാക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ VSG VTP 2 2 Io µnCox W L എൻ മോസ് ട്രാൻസിസ്റ്ററിൽ ഉണ്ടായിരുന്ന VSD വാല്യൂ തന്നെ ആയിരിക്കും ഇവിടെയും ഇനി ഈ ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിൽ ആയിരിക്കുമോ ഇത് സാച്ചുറേഷനിൽ ആയിരിക്കണമെങ്കിൽ VSD എന്നത് VSG VTP എന്നതിനേക്കാൾ അധികം ആയിരിക്കണം അതിനാൽ VTP പോസിറ്റീവ് ആയിരിക്കുന്നിടത്തോളം ഇത് സാച്ചുറേഷനിൽ ആയിരിക്കും ഇതാണ് ഏറ്റവും സാധാരണമായിട്ടുള്ള കേസ് ഇനി എൻ മോസിൻറെ കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതിനാൽ പി മോസ് ആൾട്ടർനേറ്റീവ്സ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നതാണ് രണ്ടാമത്തേത് സോഴ്സ് ടെർമിനലിലും സോഴ്സ് ടെർമിനലിലെ ഫീഡ്ബാക്കിലും സെൻസ് ചെയ്യാനുള്ളതാണ് എൻ മോസിൻറെ കാര്യത്തിൽ നാം എന്താണ് ചെയ്തത് സോഴ്സിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നതിനാൽ ഗേറ്റ് ടെർമിനൽ ഒരു ഫിക്സഡ് വോൾട്ടേജ് VG0 ലേക്ക് ഘടിപ്പിച്ചിരുന്നു ഡ്രയിൻ ഉപയോഗിച്ചിരുന്നില്ല അതിനാൽ ഇത് അപ്പർ റെയിൽ VDD ക്കാണ് ബന്ധിപ്പിച്ചിരുന്നത് സോഴ്സിലേക്ക് ഒരു കറൻറ് സോഴ്സ് Io ഘടിപ്പിച്ചിരുന്നു കൂടുതലൊന്നും ചെയ്യേണ്ടതില്ലെന്നും നമുക്ക് മനസ്സിലായിരുന്നു കാരണം ഇവിടെയുള്ള ഈ കണക്ഷൻ അർത്ഥമാക്കുന്നത് ID എന്നത് Io എന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ കറൻറ് ഈ പാരസൈറ്റിക് കപ്പാസിറ്ററിലേക്ക് ഒഴുകുന്നു വോൾട്ടേജ് വർദ്ധിക്കുന്നു കൂടാതെ ID എന്നത് Io എന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ VGS എന്നതിൻറെ വാല്യൂ കുറയ്ക്കണം അങ്ങനെ ID എന്നത് Io ലേക്ക് വീണ്ടെടുക്കുന്നു VGS ൻറെ വാല്യു കുറയ്ക്കാൻ സോഴ്സ് വോൾട്ടേജ് വർദ്ധിപ്പിക്കണം ഈ കണക്ഷൻ കാരണം ഇത് നേരത്തേ സംഭവിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഴ്സ് ടെർമിനൽ മോസ് ട്രാൻസിസ്റ്ററിൻറെ കൺട്രോളിങ് സൈഡിൻറെ ഭാഗമാണ് അതിനാൽ ഫീഡ്ബാക്ക് ഇവിടെ ഇംപ്ലിസിറ്റ് ആണ് ID Io എന്നിവയ്ക്കിടയിൽ വ്യത്യാസമുണ്ടെങ്കിൽ സോഴ്സ് വോൾട്ടേജ് മാറുന്നു അത് ഡ്രെയിൻ കറൻറ് മാറ്റുന്നു ഇതുതന്നെയാണ് പിമോസിലും സംഭവിക്കുന്നത് പി മോസിൻറെ കാര്യത്തിൽ കുറഞ്ഞത് ഓപ്പറേറ്റിംഗ് പോയിൻറ് പിക്ചറിനെ സംബന്ധിച്ചെടുത്തോളം ഡ്രയിൻ ടെർമിനൽ ഉപയോഗിക്കുന്നില്ല അതിനാൽ ഇത് ഗ്രൌണ്ടും ആയി ബന്ധിപ്പിക്കുന്നു ഗേറ്റ് ഫിക്സഡ് വോൾട്ടേജ് VG0 ആയി ബന്ധിപ്പിക്കുന്നു പൊതുവേ ഇത് റസിസ്റ്റീവ് ഡിവൈഡർ ഉപയോഗിച്ചാണ് ലഭിക്കുന്നത് ID Io എന്നിവയുടെ വ്യത്യാസം സെൻസ് ചെയ്യാൻ കറൻറ് സോഴ്സ് സോഴ്സ് ടെർമിനലും ആയി ബന്ധിപ്പിക്കുന്നു എന്തെങ്കിലും വ്യത്യാസം Io ID പാരസൈറ്റിക് കപ്പാസിറ്ററിലൂടെ ഒഴുകുന്നു അതിനാൽ ID Io ആണെങ്കിൽ കറൻറ് പാരസൈറ്റിക് കപ്പാസിറ്ററിലേക്ക് പമ്പ് ചെയ്യുന്നു എന്നാണ് അർത്ഥം സോഴ്സ് വോൾടേജ് വർദ്ധിക്കുന്നു കൂടാതെ ID Io ആണെങ്കിൽ VSG വർധിപ്പിക്കണം വീണ്ടും കൂടുതലായി ഒന്നും ചെയ്യാനില്ല എന്ന് കാണാൻ സാധിക്കും കാരണം ഗേറ്റ് വോൾട്ടേജ് ഫിക്സഡ് ആണ് സോഴ്സ് വോൾട്ടേജ് വർദ്ധിക്കുന്നു അതിനർത്ഥം ഈ കണക്ഷൻ ഉണ്ടാക്കുന്ന നിമിഷം ID Io ആണെങ്കിൽ സോഴ്സ് ഗേറ്റ് വോൾട്ടേജ് VSG വർദ്ധിക്കുന്നു അവസാനമായി സ്റ്റഡി സ്റ്റേറ്റ് എത്തിച്ചേരും അതായത് ID സമം Io ആകുമ്പോൾ ഈ വോൾട്ടേജ് ചലിക്കുന്നത് നിൽക്കും ഇതാണ് പി മോസ് ട്രാൻസിസ്റ്ററിലെ സോഴ്സ് ഫീഡ്ബാക്ക് ബയാസിംഗ് അല്ലെങ്കിൽ സോഴ്സ് സോഴ്സിലെ ഫീഡ്ബാക്ക് എന്നിവയ്ക്കിടയിലെ സെൻസ് ഇനി സാധാരണ രീതി ഉപയോഗിച്ച് ഇതിനെ ഏതുതരം ട്രാൻസിസ്റ്ററും ആക്കി മാറ്റാം ബയാസിംഗ് വ്യവസ്ഥയ്ക്ക് ഈ ചിത്രം ആവശ്യമാണ് ആംപ്ലിഫയർ റിയലൈസ് ചെയ്യാൻ ഇൻപുട്ട് സോഴ്സ് ലോഡ് എന്നിവ കൃത്യമായ സ്ഥാനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കണം മൂന്നാമത്തെ ആൾട്ടർനേറ്റീവ് ഡ്രയിനിലും സോഴ്സിൻറെ ഫീഡ്ബാക്കിലും സെൻസ് ചെയ്യുക എന്നതായിരുന്നു ഡ്രയിനിൽ സെൻസ് ചെയ്യാൻ ഒരു പൊട്ടൻഷ്യൽ VG0 സ്ഥാപിക്കാൻ ശ്രമിക്കണം ഡ്രയിനിൽ സെൻസ് ചെയ്യാൻ കറൻറ് സോഴ്സ് ഡ്രയിനുമായി ബന്ധിപ്പിക്കണം Io ID വ്യത്യാസം പാരസൈറ്റിക് കപ്പാസിറ്ററിലേക്ക് ഒഴുകും ഇവിടെ ID വളരെ ചെറുതാണെങ്കിൽ ID Io ആണെങ്കിൽ കറൻറ് ഇതുവഴി പോകുന്നു ഡ്രയിൻ വോൾട്ടേജ് വർദ്ധിക്കുന്നു നേരെമറിച്ച് ID Io ആണെങ്കിൽ സോഴ്സ് വോൾട്ടേജ് കുറയണം അങ്ങനെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് വർദ്ധിക്കുന്നു അങ്ങനെ കറൻറ് Io എന്നതിന് അടുത്തു വരുന്നു അതിനാൽ സോഴ്സിൽ നമുക്കാവശ്യമുള്ള സെൻസ് ഓഫ് വേരിയേഷൻ ഡ്രയിനിൽ ഉള്ളതിൻറെ വിപരീതമാണ് അതിനാൽ ഫീഡ്ബാക്ക് ഒരു ഇൻവെർട്ടിങ് ഗെയിൻ ഉള്ള ഒരു നെഗറ്റീവ് ഇൻക്രിമെൻറൽ ഗെയിൻ ഉള്ള ഒരു സ്റ്റേജ് വഴി പൂർത്തിയാക്കണം സാധ്യതകളിൽ ഒന്ന് ഒരു ഒപ് ആംപ് ഉപയോഗിക്കുക എന്നതാണ് പി മോസ് ട്രാൻസിസ്റ്ററിൽ ഗേറ്റ് ഒരു ഫിക്സഡ് വോൾട്ടേജ് VG0 ഇൽ ഘടിപ്പിച്ചിരിക്കുന്നു ഇത് ID ഇത് Io ഡിഫറൻസ് കറൻറ് ID Io കപ്പാസിറ്ററിൽ കൂടി ഒഴുകുന്നു ID Io ആണെങ്കിൽ വോൾട്ടേജ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ID എന്നത് Io എന്നതിനെക്കാൾ കൂടുതൽ ആണെങ്കിൽ സംഭവിക്കുന്നത് എന്തെന്നാൽ സോഴ്സ് വോൾട്ടേജ് കുറയണം അങ്ങനെ VSG കുറയുന്നു അതിനാൽ സോഴ്സിൽ നമുക്ക് ആവശ്യമുള്ള സെൻസ് ഓഫ് വേരിയേഷൻ ഡ്രയിനിൽ കണ്ടതിന് വിപരീതമാണ് എൻ മോസിലേതു പോലെ തന്നെ അതിനാൽ നമുക്ക് ഇതിനു രണ്ടിനുമിടയിൽ ഒരു നെഗറ്റീവ് ഇൻക്രിമെൻറൽ ഗെയിൻ ആവശ്യമുണ്ട് അതായത് ഡ്രയിൻ വോൾട്ടേജ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ സോഴ്സ് വോൾട്ടേജ് കുറയണം ഒരു സാധ്യത ഒപ് ആംപ് ഉപയോഗിക്കുക എന്നതാണ് നിങ്ങൾക്ക് മറ്റു പലതും ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ നമുക്കിവിടെ ഒപ് ആംപ് ഉപയോഗിക്കാം ഗെയിൻ ഡ്രയിനിൽ നിന്നും സോഴ്സിലേക്ക് ഇൻവർട്ടിങ് ആയിരിക്കണം ഇവിടെ മൈനസ് പ്ലസ് ഉണ്ട് ഇത് പോലെയാണ് ബന്ധിപ്പിക്കുന്നത് ഇതിനെ VD0 എന്ന് വിളിച്ചാൽ ഇവിടെ ആയിരിക്കും സ്റ്റഡി സ്റ്റേറ്റിലെ VD0 കാരണം ഞാൻ അനുമാനിക്കുന്ന ഒപ് ആംപ് ഒരു ഐഡിയൽ ഓപ്പൺ ആണ് ഇതിന് ഇൻപുട്ട് ടെർമിനൽസിൻറെ ഇടയിൽ വിർച്ച്വൽ ഷോട്ട് ഉണ്ട് അതിനാൽ ഇത് VD0 യിൽ ആയിരിക്കും ഗേറ്റ് VD0 യിൽ ആയിരിക്കും സോഴ്സ് ഗേറ്റ് വോൾട്ടേജ് ട്രാൻസിസ്റ്റർ കറൻറ് Io വഹിക്കുന്ന രീതിയിലായിരിക്കണം ഇതിനർത്ഥം സോഴ്സ് ഗേറ്റ് വോൾട്ടേജ് VSG VTP 2 2 Io µnCox W L ആയിരിക്കണം എന്നാണ് അതിനാൽ Vs ലെ വോൾട്ടേജ് Vs VG0 VTP 2 2 Io µnCox W L ആയിരിക്കണം ഈ ഭാഗം ഗേറ്റ് ഓവർ ഡ്രൈവ് വോൾട്ടേജ് എന്നാണ് അറിയപ്പെടുന്നത് എൻ മോസിൻറെ കാര്യത്തിൽ VGS VTN പി മോസിൻറെ കാര്യത്തിൽ VSG VTP എന്നാണ് അറിയപ്പെടുന്നത് ഇത് മോസ് ട്രാൻസിസ്റ്റർ ഓൺ ചെയ്തതിന് ശേഷം അധികമുള്ള വോൾട്ടേജിൻറെ അളവാണ് മോസ് ട്രാൻസിസ്റ്റർ ഓൺ ചെയ്യാൻ ഒരു ത്രഷോൾഡ് വോൾട്ടേജ് ആവശ്യമുണ്ട് അതിനുശേഷം ഈ വോൾട്ടേജ് ഉണ്ട് ഇതിനെയാണ് ഓവർ ഡ്രൈവ് എന്ന് വിളിക്കുന്നത് അവസാനത്തെ സാധ്യത സോഴ്സിലും ഗേറ്റിലേക്കുള്ള ഫീഡ്ബാക്കിലും സെൻസ് ചെയ്യുക എന്നതാണ് വീണ്ടും ഡ്രെയിൻ ചിത്രത്തിൽ ഇല്ലാത്തതുകൊണ്ട് സപ്ലൈ വോൾട്ടേജ് VDD യുമായി സോഴ്സിൽ സെൻസ് ചെയ്യാനായി ബന്ധിപ്പിക്കുന്നു നാം ഒരു കറൻറ് സോഴ്സ് Io ഘടിപ്പിക്കുന്നു ഇനി ഇത് വെറുതെ സോഴ്സിൽ ബന്ധിപ്പിച്ചാൽ സോഴ്സിൽ ഫീഡ്ബാക്ക് ഉണ്ടാകും എന്ന് നമുക്കറിയാം ഇവിടെ ഫീഡ്ബാക്ക് ഗേറ്റിലേക്ക് മാത്രമല്ല ഫീഡ്ബാക്ക് സോഴ്സിലും കൂടിയാണ് നെഗറ്റീവ് ഇൻക്രിമെൻറൽ ഗെയിൻ വഴി ഫീഡ്ബാക്ക് പൂർത്തീകരിച്ച് ഗേറ്റിലേക്ക് അധികമായി ഫീഡ്ബാക്ക് നൽകാൻ സാധിക്കും ഇതിന് കാരണം ഗേറ്റിൽ ആവശ്യമുള്ള സെൻസ് ഓഫ് വേരിയേഷൻ സോഴ്സിൽ ഉള്ളതിൻറെ വിപരീതമാണ് അതിനാൽ ഇവിടെയും ഞാൻ ഗേറ്റിലേക്ക് ഫീഡ്ബാക്ക് വരയ്ക്കുന്നു ഫീഡ്ബാക്ക് ഗേറ്റിലേക്കും സോഴ്സിലേക്കും ഉണ്ട് പക്ഷേ ആംപ്ലിഫയറിന് വളരെയധികം ഗെയിൻ ഉണ്ടെങ്കിൽ ഗേറ്റിലേക്ക് കാര്യമായ ഫീഡ്ബാക്ക് ഉണ്ട് സോഴ്സിലേക്ക് വളരെ കുറച്ച് ഫീഡ്ബാക്ക് ആണുള്ളത് ഇനി പി മോസ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ ഞാൻ ഇതേ തത്വം ആണ് ഉപയോഗിക്കുന്നത് ഡ്രയിൻ ഓപ്പറേറ്റിംഗ് പോയിൻറ് ചിത്രത്തിൽ ഉപയോഗിക്കുന്നില്ല സോഴ്സിൽ സെൻസ് ചെയ്യാൻ ഒരു കറൻറ് സോഴ്സ് സോഴ്സ് ടെർമിനലിലേക്ക് ബന്ധിപ്പിക്കുന്നു ഇതാണ് Io ഇത് ID Io ID ഇതുവഴി ഒഴുകുന്നു അതിനാൽ ID Io ആണെങ്കിൽ VS വർദ്ധിക്കുന്നു ID Io ആണെങ്കിൽ VSG തീർച്ചയായും വർദ്ധിക്കണം ഒന്നുകിൽ VS എന്തായാലും വർദ്ധിക്കണം അല്ലെങ്കിൽ VG എന്തായാലും കുറയണം അല്ലെങ്കിൽ ഇത് രണ്ടും സംഭവിക്കണം ഇവിടെ VS വർദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഗേറ്റിലേക്ക് ഫീഡ്ബാക്ക് ഉണ്ടാകണം വീണ്ടും ഗേറ്റിൽ ആവശ്യമുള്ള സെൻസ് ഓഫ് വേരിയേഷൻ സോഴ്സിൽ ഉള്ളതിൻറെ വിപരീതമാണ് അതിനാൽ നാം ഫീഡ്ബാക്ക് ഒരു ഇൻവെർട്ടിങ് സ്റ്റേജ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻക്രിമെൻറൽ ഗെയിൻ ഉള്ള എന്തെങ്കിലും ഉപയോഗിച്ചു പൂർത്തിയാക്കണം ഇത് വ്യക്തമാക്കുന്നത് സോഴ്സ് വോൾട്ടേജ് വർദ്ധിക്കുമ്പോൾ ഗേറ്റ് വോൾട്ടേജ് കുറയുന്നു എന്നാണ് ഒപ് ആംപ് ഉപയോഗിക്കുകയാണ് ഒരു ഉദാഹരണം കാരണം നമുക്കൊരു ഇൻവെർട്ടിങ് സ്ട്രക്ച്ചർ ആവശ്യമുണ്ട് ഇവിടെയാണ് ഒപ് ആംപിൻറെ ഇൻവെർട്ടിങ് ടെർമിനൽ ഇതാണ് VS0 ഇത് ഒരു ഐഡിയൽ ഒപ് ആംപ് ആണെങ്കിൽ വിർച്ച്വൽ ഷോർട്ട് കാരണം ഇത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കുമ്പോൾ ഈ വോൾട്ടേജ് VS0 ൽ ആയിരിക്കും ഗേറ്റ് വോൾട്ടേജ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ഇത് VS0 VT ഓവർഡ്രൈവ് ആയിരിക്കും ഇതാണ് തന്നിരിക്കുന്ന കറൻറിൽ പി മോസ് ട്രാൻസിസ്റ്റർ ബയാസ് ചെയ്യാനുള്ള അവസാനത്തെ വേരിയൻറ് ഇനി ഇതിൽ ഏതുതരം ബയാസിംഗ് പിക്ചർസ് വേണമെങ്കിലും എടുത്ത് കോമൺ സോഴ്സ് ആംപ്ലിഫയർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരം ആംപ്ലിഫയർ ആക്കി മാറ്റാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ എൻ മോസ് ട്രാൻസിസ്റ്ററിൻറെ ടോപ്പോളജി ഉണ്ടെന്നിരിക്കെ പി മോസ് ടോപ്പോളജി ആദ്യം മുതൽ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല എൻ മോസ് സർക്യൂട്ട് പി മോസ് ആക്കി മാറ്റാൻ ചിട്ടയായുള്ള ഒരു രീതിയുണ്ട് ഇത് വരും അധ്യായങ്ങളിൽ പഠിക്കാം